സ്വാഗതം ജിഗ്ഗിങ് സൈക്കിളുകളെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ആ ചർച്ച ഞാൻ തുടരട്ടെ ഇപ്പോൾ സൈക്കിൾ ഫ്രീക്വൻസി നിർണ്ണയിക്കുന്ന പാരാമീറ്ററുകളിൽ ഫീഡ് നിരക്കും നിങ്ങൾ ഏത് നിരക്കിലാണ് ഫീഡ് ചെയ്യുന്നതെന്നും ഉൾപ്പെടുന്നുവെന്ന് നിങ്ങൾ കാണുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ജിഗ്ഗിംഗ് ആവൃത്തി നിയന്ത്രിക്കേണ്ടി വരുന്നത് കാരണം തട്ടിന് എത്ര ഭാരം ഉണ്ട് മൊത്തം കണിക തട്ടിന്റെ ഭാരം എന്താണ് അതിനാൽ പൾസേഷൻ സൈക്കിൾ അല്ലെങ്കിൽ പൾസേഷൻ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ അല്ലെങ്കിൽ ജിഗ്ഗിംഗ് സൈക്കിളിന്റെ ആവൃത്തി എത്രയായിരിക്കണം എന്ന് അത് നിർണ്ണയിക്കും പിന്നീടാണ് ഫീഡിന്റെ വലിപ്പം ജിഗ്ഗ് ഡിസൈനിന്റെ വലിപ്പത്തിന്റെ പരിധിയും സാന്ദ്രതയും എന്താണ് ജിഗ്ഗ് ഡിസൈനിനു എത്ര മാത്രം മെറ്റീരിയൽ ഉൾക്കൊള്ളാനാകും ഇനി ബാക്കിയുള്ള മൂന്ന് കാര്യങ്ങളായ വലിപ്പം സാന്ദ്രത ഫീഡ് റേറ്റ് എന്നിവ അത് തീരുമാനിക്കും അതിന്റെ ഭാരം എത്രയാണ് എത്രത്തോളം വ്യാപ്തിയുള്ള മെറ്റീരിയൽ അതിനു ഉൾക്കൊള്ളാനാകും അത് കൊണ്ട് തന്നെ ആവൃത്തി ക്രമീകരിക്കേണ്ടതുണ്ട് കാരണം തട്ട് പൂർണമായി മുകളിലേക്കും താഴേക്കും ഉയർത്തേണ്ടതായിട്ടുണ്ട് അതിനാൽ നിങ്ങൾ എത്ര തവണ ഇത് ചെയ്യേണ്ടതുണ്ട് അത് ഫീഡ് നിരക്കിന്റെ വലിപ്പത്തേയും സാന്ദ്രതയെയും ആശ്രയിച്ചിരിക്കും റേറ്റ് അടിസ്ഥാനപരമായി കണങ്ങളുടെ താമസ സമയത്തെയും നിയന്ത്രിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് എത്ര സമയം ആവശ്യമാണ് എന്നുള്ളത് വലുപ്പ ശ്രേണിയേയും സാന്ദ്രത ശ്രേണിയേയും ആശ്രയിച്ചിരിക്കുന്നു ജിഗ്ഗിംഗ് സൈക്കിളിൽ നമ്മൾ കണ്ടത് പോലെ ജിഗ് പൾസേഷൻ എന്നത് ലളിതമായ ഹാർമോണിക് ചലനമാണ് അതിനാൽ അത് മറ്റൊന്നുമല്ല ഒരു ലളിതമായ ഹാർമോണിക് ചലനമാണ് അത്കൊണ്ട് തന്നെ പൾസേഷൻ സമയം പെൻഡുലത്തെ അടിസ്ഥാനമാക്കിയുള്ള ലളിതമായ ഹാർമോണിക് ചലനത്തിനായി ഉപയോഗിച്ച അടിസ്ഥാന ഫോർമുല ഉപയോഗിച്ച് നൽകാം അതിനാൽ പെൻഡുലത്തെ അടിസ്ഥാനമാക്കിയുള്ള ലളിതമായ ഹാർമോണിക് ചലനത്തിന്റെ ഫോർമുല നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർമോണിക് ചലനം ഇങ്ങനെ ആയിരിക്കും ഇതൊരു പെൻഡുലം ചലനം പോലെ ആയിരിക്കും അതിനാൽ ഇവിടെ T എന്നത് ഒരു പൂർണ്ണ പൾസേഷൻ സൈക്കിളിനുള്ള പൾസേഷൻ സമയത്തിന് തുല്യമാണ് അതായത് മുഴുവൻ പൾസേഷൻ സൈക്കിളിനും നിങ്ങൾ എത്ര സമയം നൽകിയിട്ടുണ്ട് എന്നത് സ്ട്രോക്കിന്റെ ദൈർഘ്യമായ 2t ന് തുല്യമാണ് അതായത് പകുതി സൈക്കിൾ അതായത് സ്ട്രോക്കിന്റെ ദൈർഘ്യം ഒരു സൈക്കിളിന്റെ പകുതി ആണെങ്കിൽ അത് പൂർണ്ണമായ സൈക്കിൾ അല്ല അത് പകുതി സൈക്കിൾ മാത്രമാണ് അതിനാൽ L എന്നത് പെൻഡുലത്തിന്റെ സസ്പെൻഷൻ കേന്ദ്രത്തിന്റെ സസ്പെൻഷന്റെ കേന്ദ്രവും പെൻഡുലവും അതിന്റെ ഓസിലേഷൻ കേന്ദ്രവും തമ്മിലുള്ള ദൂരത്തിന് തുല്യമാണ് അതിനാൽ T സമം 2 t സമം പൈ സ്ക്വയർ റൂട്ട് ഓഫ് Lg നിങ്ങളുടെ സ്കൂൾ ദിവസങ്ങളിലോ ലളിതമായ ഹാർമോണിക് ചലനത്തിനായി പഠിച്ച അടിസ്ഥാന ഫോർമുല എങ്ങനെ പ്രയോഗിക്കാമെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കും അതിനാൽ പൾസേഷൻ ആവൃത്തിയിൽ മിനിറ്റിൽ 60 സ്ട്രോക്കുകൾ അപ്പോൾ t ഒരു സെക്കൻഡിന് തുല്യമാണ് കാരണം അത് 60 60 ആണ് അപ്പോൾ t യുടെ കാര്യമോ T എന്നത് പൾസേഷൻ സമയമാണ് അതിനാൽ t സമം 1 സെക്കൻഡ് മുകളിലുള്ള സമവാക്യത്തിൽ നിന്ന് നമുക്ക് എഴുതാം T സമം പൈ Lg അതിനാൽ L എന്നത് t സ്ക്വയർ g 4 പൈ സ്ക്വയർ അത് കൊണ്ട് ഞാൻ L1 എന്നത് T1 സ്ക്വയർ g 4 പൈ സ്ക്വയർ എന്ന് എഴുതുന്നു അതിനാൽ നിങ്ങളുടെ T യുടെ മൂല്യം ഞങ്ങൾക്കറിയാം അതായത് അടിസ്ഥാനപരമായി ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ T1 ആണ് അതിനാൽ T1 എന്നത് 12 ലേക്ക് 9 81 നെ 4 കൊണ്ട് ഹരിച്ചാൽ 3 414 സ്ക്വയറിനു തുല്യമാണ് അങ്ങനെ അത് നിങ്ങൾക്ക് 0 248 മീറ്റർ നൽകും അങ്ങനെ എങ്കിൽ L1 സമം T1 സ്ക്വയർ g 4 പൈ സ്ക്വയർ അപ്പോൾ g യുടെ വാല്യൂ എന്താണ് അത് ഞാൻ തന്നിട്ടുണ്ട് T സമം 1 സെക്കന്റ് അങ്ങനെ എങ്കിൽ അത് 1 ആയിരിക്കണം അത് 1 സ്ക്വയർ ആണ് അല്ലാതെ 12 അല്ല അപ്പോൾ അത് 1 സ്ക്വയർ ആണ് അതായത് T സമം 1 സെക്കന്റ് അപ്പോൾ അത് 1 ന്റെ പവർ സ്ക്വയർ ആയിരിക്കണം അത് മറ്റൊന്നുമല്ല 1 ആണ് അങ്ങനെ അത് 9 81 4 അങ്ങനെ 3 414 സ്ക്വയർ ആകുന്നു അത് 0 248 മീറ്ററിന് തുല്യമാണ് അതപ്പോൾ ശരിയാക്കണം പൾസേഷൻ റേറ്റ് പകുതി ആണെങ്കിൽ T സമം 2 സെക്കന്റ് അതിനർത്ഥം മിനിറ്റിൽ നമുക്ക് 30 പൾസേഷൻ ലഭിച്ചു അപ്പോൾ സ്ട്രോക്ക് ലെങ്തിന്റെ പകുതി വർദ്ധിപ്പിക്കണം അപ്പോൾ ചോദ്യം ഇതാണ് പൾസേഷൻ റേറ്റ് പകുതി ആണെങ്കിൽ സ്ട്രോക്ക് ലെങ്ത് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് അപ്പോൾ അത് T 1 ബൈ റൂട്ട് അതിൽ സ്ക്വയർ റൂട്ട് ഓഫ് L1 ഈസ് ഈക്വൽ റ്റു T2 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് L2 അത്കൊണ്ട് L2 സമം T2 ബൈ L1 സ്ക്വയർ T2 ബൈ T1 ഈസ് സ്ക്വയർ ഇന്റ്റു L1 കാരണം ഇങ്ങനെ ഞാൻ ഇത് കൊണ്ട് പോയാൽ അത് T2 ആകും അത് 2 ആണ് കാരണം അത് നമ്മൾ പകുതി ആക്കി T1 എന്നത് 1 ആയിരുന്നു അപ്പോൾ 2 ബൈ 1 സ്ക്വയർ ഇന്റ്റു 0 248 നമുക്ക് 1 മീറ്റർ നൽകും അത് കൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്ക് സ്ട്രോക്ക് കുറക്കണമെങ്കിലോ പൾസേഷൻ ആവൃത്തി പകുതി ആക്കണമെങ്കിലോ സ്ട്രോക്ക് ലെങ്ത് 0 248 മീറ്ററിൽ നിന്നും 1 മീറ്റർ ആ ക്കേണ്ടതുണ്ട് അപ്പോൾ സ്ട്രോക്ക് ലെങ്ത് ആണ് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടത് അത്കൊണ്ട് ഇത് 1 സ്ക്വയർ അതാണ് തിരുത്തൽ ഈ തത്ത്വം പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതിന്റെ ഫലമായി ജിഗ്ഗ് വാളുകളിൽ സ്ട്രെസും തട്ടിൽ ഇളക്കവും ഉണ്ടാകും ഇത് വിഭജിക്കൽ തടസ്സപ്പെടുത്തും അങ്ങനെ ക്ഷമത കുറക്കും അത് കൊണ്ട് തന്നെ സ്ട്രോക്ക് ലെങ്ത് എത്ര ആണെന്നും ജിഗ്ഗിങ് സൈക്കിൾ ആവൃത്തി എത്രയാണെന്നും ക്രമീകരിക്കേണ്ടതുണ്ട് വിവിധ ജിഗ്ഗുകളുടെ ചില ഓപ്പറേറ്റിംഗ് ഡാറ്റ വീണ്ടും ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അത് ഒരു കൽക്കരി ജിഗ്ഗിന് വേണ്ടിയുള്ളതായിരുന്നു ഇത് വ്യത്യസ്ത നിർമ്മാതാക്കൾ അല്ലെങ്കിൽ വ്യത്യസ്ത തരം ജിഗുകളിൽ നിന്നുള്ള ചില ഓപ്പറേറ്റിംഗ് ഡാറ്റയ്ക്കാണ് ഇതിനെ വിളിക്കുന്നത് ബോം ജിഗ് എന്നാണ് 5 മുതൽ 200 മില്ലിമീറ്റർ വരെ കണികാ വലിപ്പം ഈ ഡാറ്റ വച്ചാണ് ഞാൻ ബോം ജിഗ് കാണിക്കുന്നത് അത് 515 മുതൽ 200 മില്ലിമീറ്റർ വരെ കണിക വലുപ്പം വേർതിരിക്കുന്നു ആംപ്ലിറ്റ്യൂഡ് 30 മുതൽ 40 മില്ലിമീറ്റർ വരെ ആവൃത്തി 30 മുതൽ 60 വരെ ആയിരുന്നു അങ്ങനെ നമുക്ക് മറ്റൊരു തരം ജിഗ് ലഭിച്ചു അതിനാൽ അത് വ്യത്യാസപ്പെടാം അത്കൊണ്ട് ഇത് എന്ത് തരം ജിഗ്ഗ് ആണ്കണികയുടെ വലിപ്പത്തിന്റെ പരിധി എന്താണ് എന്ത് റേറ്റിലാണ് ഫീഡിങ് വിവിധ കണങ്ങളുടെ സാന്ദ്രത എന്താണ് ഇതിനെയെല്ലാം ആശ്രയിച്ചിരിക്കും ജിഗ്ഗ് വേർതിരിക്കൽ നിയന്ത്രിക്കുന്നത് വെള്ളം ചേർക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും അതായത് ഒരു ഓവർ ഫ്ലോ വയർ ഉണ്ടെങ്കിൽ എത്ര മാത്രം വെള്ളം ഉണ്ടാകും വെള്ളം എന്ത് ചെയ്യും തിരശ്ചീനമായ ജലപ്രവാഹം ഉണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും അനുയോജ്യമായി ഭാരം കുറഞ്ഞ കണങ്ങൾ ഒരു പ്രത്യേക വയറിലൂടെ കടന്നുപോകണം ഇവിടെ നിങ്ങൾക്ക് തിരശ്ചീനമായ ജലപ്രവാഹം ഉണ്ടാകുന്നു അത് ഉണ്ടാവാനായി നിങ്ങൾ കൊറച്ചു വെള്ളം ചേർക്കണം അത് വേർതിരിക്കാൻ അതായത് ഫ്ളോട്ട് മെറ്റീരിയൽ വേഗത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കും വാട്ടർ അഡിഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് സ്ട്രോക്ക് ഫ്രീക്യുൻസി ആംപ്ലിറ്റ്യുട് ഫീഡ് റേറ്റ് റാഗിംഗ് ലെയർ അതായത് എത്ര മെച്ചപ്പെട്ടതാണ് റാഗിങ് ലെയർ എന്നിവയെല്ലാം ഇതിനകം ചർച്ച ചെയ്തു കഴിഞ്ഞു ഒന്നുകിൽ മുകളിലെ വെള്ളമായി ജിഗ്ഗിൽ വെള്ളം ചേർക്കുന്നു അതാണ് ഞാൻ വിശദീകരിച്ചത് സ്ക്രീനിന് മുകളിൽ അല്ലെങ്കിൽ ബാക്ക് വാട്ടർ സ്ക്രീനിന് താഴെയുള്ള വെള്ളം അല്ലെങ്കിൽ ഹച്ചിലെ വെള്ളം നിങ്ങളുടെ ഹച്ചിൽ എത്ര വെള്ളമാണുള്ളത് കാരണം നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഇല്ലെങ്കിൽ അവിടെ വെള്ളത്തിന്റെ അളവ് കുറവാണ് എന്ന് പറയും നിങ്ങൾ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കണിക തട്ട് ശരിയായ രീതിയിൽ ദ്രവീകരിക്കപ്പെടില്ല ജിഗ് ബെഡിന്റെ മുകളിലൂടെ ഒഴുകുന്ന മൊത്തം വെള്ളം ക്രോസ്സ് വാട്ടർ ആണ് വെള്ളം സാധാരണയായി ഈ ദിശയിലേക്കാണ് നീങ്ങുന്നത് അതിനാൽ ഇതിന് ഒരു ലംബ ദിശയുണ്ട് അതിനാൽ അതാണ് നിങ്ങളുടെ ക്രോസ് വാട്ടർ അത് നിങ്ങളുടെ ഫ്ലോട്ട് മെറ്റീരിയലുകളുടെ ശേഖരണത്തിന് മാത്രമുള്ളതാണ് ഈ ക്രോസ് വാട്ടർ തട്ടിനു മുകളിലുള്ള കണങ്ങളുടെ തിരശ്ചീന പ്രവാഹത്തെ നിയന്ത്രിക്കുന്നു ബാക്ക് വാട്ടർ സൈക്കിളിന്റെ സക്ഷൻ ഭാഗത്തിന്റെ പ്രഭാവം കുറയ്ക്കുന്നു ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അപ്പോൾ നിങ്ങൾ സക്ഷൻ സ്ട്രോക്ക് ചെയുന്നു അതിനാൽ അവിടെയുള്ള രണ്ട് കമ്പാർട്ടുമെന്റുകളായിരിക്കും ജലനിരപ്പ് ഉടനടി തുല്യമാകുന്നത് അല്ലാത്തപക്ഷം അതിനാൽ ഒരു മികച്ച സക്ഷൻ ലഭിക്കാൻ നിങ്ങളുടെ ലെവൽ കുറച്ച് കുറയ്ക്കേണ്ടതുണ്ട് അതിനാൽ അത് ക്രമീകരിക്കുന്നതിന് നിങ്ങളുടെ ഹച്ചിൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഒപ്റ്റിമം വോളിയം വെള്ളം ഉണ്ടായിരിക്കണം അതിനാൽ ഇത് സ്ട്രോക്കിന്റെ പൾസേഷൻ സമയത്ത് ഉയരുന്ന ജലവേഗതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താഴുന്ന ജലത്തിന്റെ വേഗതയെ ബാധിക്കുന്നു ഇവയെല്ലാം ജിഗ്ഗിംഗ് പ്രവർത്തനത്തിന്റെ പരിമിതമായ വിശദാംശങ്ങളാണ് ഫീഡ് നിരക്ക് കനത്ത അംശത്തിന്റെ ഡിസ്ചാർജ് നിരക്കുമായി പൊരുത്തപ്പെടണം അങ്ങനെ ഒരു സ്ഥിരമായ പ്രവർത്തനം നിലനിർത്താൻ കഴിയും ഏത് തുടർ പ്രക്രിയക്കും ഇത് ശരിയാണ് കനത്ത അംശത്തിന്റെ ഡിസ്ചാർജ് വിഭജിച്ച പാളിയിൽ എത്തുന്ന കനത്ത കണങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ഈ പാളി തിരിച്ചെടുക്കാൻ പറ്റാതെ ആകും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലായ ഭാരമേറിയ അംശം നീക്കം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നത് ഏത് നിരക്കിലാണ് അത് നിങ്ങൾ നീക്കം ചെയ്യുന്നില്ലെങ്കിൽ ഈ കണികകൾ വന്നു നിറയും അപ്പോൾ നിങ്ങൾക്ക് ഫ്ളോട്ട് ഫ്രാക്ഷനിൽ ചില ഭാരമേറിയവ നഷ്ടപെട്ടു തുടങ്ങും അത് തികച്ചും വലിയ ഭാരം കുറഞ്ഞ അംശങ്ങൾ ആയിരിക്കും നേരെമറിച്ച് റാഗിംഗിലൂടെയോ ഡിസ്ചാർജ് ഗേറ്റിലൂടെയോ ഉള്ള ഭാരമുള്ളവയുടെ ഡിസ്ചാർജ് നിരക്ക് വേർതിരിക്കുന്ന പാളിയിലേക്ക് ഭാരമുള്ള കണങ്ങളെ വേർതിരിക്കുന്ന നിരക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ ചില ഭാരം കുറഞ്ഞ അംശങ്ങൾ ഒടുവിൽ ഗ്രേഡ് കുറയ്ക്കുന്ന ഭാരം കൂടിയ അംശത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും ഇത് നിങ്ങൾ വളരെ വേഗത്തിലാണ് നീക്കം ചെയുന്നത് എങ്കിൽ ഭാരം കുറഞ്ഞ കണങ്ങൾ ഗുരുത്വാകർഷണ ത്വരണം അല്ലെങ്കിൽ ഗുരുത്വാകർഷണ വേഗത മൂലം താഴേക്ക് വരും അപ്പോൾ നിങ്ങളുടെ ഭാരം കൂടിയ കണികകകളിൽ ഭാരം കുറഞ്ഞ കണങ്ങൾ ചേർന്ന് അവ മലിനമാകും അതിനാൽ ഒരു സ്ഥിരമായ അവസ്ഥയിലെത്താൻ സിസ്റ്റത്തെ പ്രാപ്തമാക്കുന്നതിന് നിങ്ങളുടെ ഭാരം കൂടിയവയുടേയും ഭാരം കുറഞ്ഞവയുടേയും ശേഖരണ നിരക്കും നിങ്ങളുടെ ഫീഡിംഗ് നിരക്കും സമന്വയിപ്പിച്ചിരിക്കണം റാഗിംഗിന്റെ വലിപ്പം വലിപ്പ വിതരണം ആകൃതി സാന്ദ്രത എന്നിവയെല്ലാം വിഭജിക്കലിനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ജിഗ്ഗുകൾക്ക് പോലും റാഗിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു അതിനാൽ ആ കണങ്ങളുടെ വലിപ്പം പോലെ വൈഡ് സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും അതിനാൽ താരതമ്യേന സൂക്ഷ്മമായ റാഗിംഗ് മെറ്റീരിയലുകൾ പോലും അവയ്ക്കിടയിലുള്ള ശൂന്യമായ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തും ഭാരം കൂടിയ കണങ്ങൾ തട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ താഴേക്ക് പോകാൻ ശ്രമിക്കും കണികകൾ ഓവർ ഫ്ളോയിലൂടെ എത്തും ആഴമേറിയതും ഭാരമേറിയതുമായ റാഗിംഗ് ലെയറും പൾസേഷൻ സ്ട്രോക്ക് ചെറുതും ആകുമ്പോൾ കണികകൾ റാഗിങ്ങിലേക്ക് കയറുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ സാവധാനത്തിൽ ആയിരിക്കും കനത്ത ഫ്രാക്ഷൻ ഡിസ്ചാർജ് പക്ഷേ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റിൽ മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നം ലഭിക്കും റാഗിംഗ് വലുപ്പം ഫീഡിലെ പരമാവധി കണികാ വലിപ്പത്തിന്റെ ഏകദേശം 3 മുതൽ 4 ഇരട്ടി വരെ ആയിരിക്കണം ഇവയെല്ലാം ഹച്ചിന്റെ പരിമിതമായ വിശദാംശങ്ങളാണ് അപ്പോൾ ജിഗ്ഗിലെ ഓപ്പറേറ്റിംഗ് വേരിയബിളുകൾ എന്തൊക്കെയാണ് അതാണ് ഹച്ച് വാട്ടർ ഫ്ലോ അതായത് ഹച്ച് വാട്ടർ ഒഴുകുന്ന പൾസേഷൻ ഫ്രീക്വൻസിയാണ് ഇത് ഹച്ച് വാട്ടർ ഫ്ലോ പൾസേഷൻ സ്ട്രോക്ക് ലെങ്ങ്തിനെ നിയന്ത്രിക്കുന്നു ഇത് ഹച്ച് ജലപ്രവാഹ നിരക്ക് വീണ്ടും നിയന്ത്രിക്കുന്നു റാഗ്ഗിങ്ങിന്റെ നിർദ്ദിഷ്ട ഗുരുത്വാകർഷണം വലുപ്പം ആകൃതി എന്നിവ നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തു കഴിഞ്ഞു തട്ടിന്റെ ഡെപ്ത് അതായത് നിങ്ങളുടെ തട്ടിൽ എന്തെല്ലാം മെറ്റീരിയൽസ് ഉണ്ട് അതാണ് നിങ്ങളുടെ തട്ടിന്റെ ആഴം ഞാൻ പറഞ്ഞത് അത് 1 മീറ്ററാണെങ്കിൽ അല്ലെങ്കിൽ അത് 0 5 മീറ്ററാണെങ്കിൽ എന്ത് സംഭവിക്കും അതിനാൽ അത് തെറ്റാനുള്ള സാധ്യത കുറവാണ് അതിനാൽ സ്ക്രീൻ അപ്പേർച്ചർ സൈസ് ഫീഡ് നിരക്ക് സാന്ദ്രത ഇവയെല്ലാം ആഴത്തിൽ ചർച്ചചെയ്യുന്നു ഇപ്പോൾ മിനറൽ പ്രോസസ്സിംഗ് ഫീൽഡിൽ ജിഗ്ഗിംഗ് പ്രയോഗിക്കുന്നത് പ്രാഥമികമായി സ്വർണ്ണം വീണ്ടെടുക്കലിന്റെ ഗ്രൈൻഡിംഗ് ഘട്ടത്തിലും പിന്നീട് ജിഗ്ഗുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് കൽക്കരി വേർതിരിക്കലിലും കാസിറ്ററൈറ്റ് എന്നറിയപ്പെടുന്ന ടിൻ റിക്കവറിയിലുമാണ് ധാതുക്കളുടെ കാര്യത്തിൽ ഇവ സ്വർണ്ണവും ടിന്നും ആണെന്ന് നിങ്ങൾ കാണുന്നു അവ എനിക്ക് ആവശ്യമുള്ള മെറ്റീരിയലാണ് അവ എന്റെ ഗാങ് മെറ്റീരിയലിനെക്കാൾ വളരെ ഉയർന്ന സാന്ദ്രത ഉള്ളവയാണ് എന്നാൽ കൽക്കരിയുടെ കാര്യത്തിൽ എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ മെറ്റീരിയൽ തമ്മിലുള്ള പ്രത്യേക ഗുരുത്വാകർഷണ വ്യത്യാസം കുറവാണെങ്കിലും എന്തുകൊണ്ടാണ് അവ ജനപ്രിയമായത് കാരണം കൽക്കരി കൂടുതൽ കട്ടിയുള്ള വലുപ്പത്തിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ടിന്നിനും സ്വർണ്ണത്തിനും ലിബറേഷൻസ് മൂലം അനുബന്ധ പ്രശ്നങ്ങൾ ഉണ്ട് അവിടെ നിങ്ങൾ കണികകളെ വളരെ സൂക്ഷ്മമായ വലിപ്പത്തിൽ മിനുസപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ കൽക്കരി ജിഗുമായി താരതമ്യപ്പെടുത്തി അവയെ ഒരു മിനറൽ ജിഗ്ഗായി പരിഗണിക്കുമ്പോൾനിങ്ങൾ പ്രധാനമായി താരതമ്യേന സൂക്ഷ്മമായ വലിപ്പത്തിൽ ഉള്ളവയെ ആണ് കൈകാര്യം ചെയ്യുന്നത് കൽക്കരി ജിഗും മിനറൽ ജിഗും തമ്മിൽ മറ്റൊരു വ്യത്യാസമുണ്ട് ഇപ്പോൾ ചില ഓപ്പറേറ്റിംഗ് വേരിയബിളുകളുടെ പ്രവർത്തന ശ്രേണിയുടെ ഫലത്തിന്റെ സംഗ്രഹം ഇതിനുണ്ട് അതാണ് ജിഗ് വേർതിരിക്കൽ അതിനാൽ വേർതിരിക്കൽ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവയാണ് അതിനാൽ ഇത് ജിഗ്ഗിംഗ് എന്താണെന്നു മനസിലാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് നൽകിയത് അതിനാൽ ഞാൻ ഇത് നിങ്ങൾക്ക് നൽകുന്നു ഞാൻ ഇത് വീണ്ടും വീണ്ടും വിശദീകരിക്കാൻ പോകുന്നില്ല കാരണം ഇതെല്ലാം ഇതിനകം വിശദീകരിച്ചിട്ടുണ്ട് അതിനാൽ ഇതാണ് കംപ്രഷൻ സ്ട്രോക്ക് അതായത് നിങ്ങൾ ഒരു ബോം ജിഗിൽ പരമ്പരാഗത ജിഗിലാണ് കംപ്രെസ്സ് ചെയ്യുന്നത് അതിനാൽ ദ്രാവകത്തിന് മുകളിലേക്കുള്ള വേഗതയുണ്ട് അതാണ് പരമാവധി വേഗത മേഖല അതിനാൽ നിങ്ങൾക്ക് ഇതുപോലൊരു സൈനുസോയിടൽ ചലനമുണ്ട് അതിനാൽ ഇതാണ് പൾസേഷനും സക്ഷൻ സ്ട്രോക്കും അതിനാൽ ഇവിടെ എത്തിച്ചേരുന്ന വെള്ളത്തിന്റെ പരമാവധി താഴേക്കുള്ള വേഗതയാണിത് ബാക്ക് വാട്ടർ ഉള്ള ഒരു പരമ്പരാഗത ജിഗിൽ ഇത് അനുയോജ്യമായ ജലപ്രവാഹ വേഗതയാണ് കാരണം നിങ്ങൾ ബാക്ക് വാട്ടർ ചേർക്കുമ്പോൾ സക്ഷൻ സ്ട്രോക്ക് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ പൾസേഷൻ സ്ട്രോക്കിന്റെ സമയം വർദ്ധിപ്പിക്കാനും ആഗ്രഹിക്കുന്നു അതായത് കണങ്ങളുടെ സാന്ദ്രത വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കി അവയെ സ്വയം പുനഃക്രമീകരിക്കാൻ നിങ്ങൾ കൂടുതൽ സമയം നൽകുന്നു